ഇപ്പോൾ നമ്മൾ ബിൽറ്റ് ഇൻ സെൽഫ് ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു ചിപ്പ് ഉപയോഗിച്ച് സ്വയം പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതികത ഈ പ്രധാന സവിശേഷതകൾ നോക്കാം ആവശ്യകതകൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇത് ഒരു പരിധിവരെ എങ്ങനെ നേടാനാകുമെന്ന് നോക്കാം എക്സ്റ്റേനൽ ടെസ്റ്റിംഗ് പോലെ മികച്ച രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാലും നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം അതിനാൽ ചിപ്പിനുള്ളിൽ ചില അധിക ഹാർഡ്വെയർ ചേർക്കുക എന്നതാണ് ബിൽറ്റ് ഇൻ സെൽഫ് ടെസ്റ്റിനു പിന്നിലെ അടിസ്ഥാന ആശയം അതായത് ടെസ്റ്റ് ജനറേഷനുംറെസ്പോൺസ് ഇവാലുവേഷനും അതിനുള്ളിൽ നടത്താം എന്താണ് സാമ്പ്രദായിക സമീപനം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം സാമ്പ്രദായിക സമീപനം എന്നത് ഞാൻ ഇവിടെ ഡയഗ്രമാറ്റിക്കായി കാണിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ എനിക്ക് സർക്യൂട്ട് അണ്ടർ ടെസ്റ്റ് ഉണ്ട് CUT എനിക്ക് ഒരു ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ functional specificationഉണ്ട് ഇൻപുട്ടുകൾ ഉണ്ട് ഔട്ട്പുട്ടുകൾ ഉണ്ട് അതിനാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ആദ്യം ഒരു ടൂൾ ഉപയോഗിക്കുന്നു ഞാൻ ഒരു ടെസ്റ്റ് ജനറേഷൻ ടൂൾ ഉപയോഗിക്കുന്നു ഈ സർക്യൂട്ട് നെറ്റ് ലിസ്റ്റിൽ ഞാൻ നൽകുന്ന ഇൻപുട്ട് പോലെ തന്നെ അല്ലെങ്കിൽ ഇത്തരമൊരു സ്പെസിഫിക്കേഷനും ടെസ്റ്റ് ജനറേഷൻ ടൂളും എനിക്ക് ഒരു കൂട്ടം ടെസ്റ്റ് വെക്ടറുകൾ T തരും ഇപ്പോൾ ഇത് ഒരിക്കൽ ചെയ്തു ഇപ്പോൾ സർക്യൂട്ടുകൾ നിർമ്മിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റ് എക്വിപ്മെന്റ് അല്ലെങ്കിൽ ATE എന്ന് വിളിക്കുന്ന ഒന്ന് ഉപയോഗിക്കുന്നു ATE മെമ്മറിയിൽ ടെസ്റ്റ് പാറ്റേണുകൾ ലോഡ് ചെയ്യും കൂടാതെ ATE ഈ ചിപ്പിലേക്ക് ATE യിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഇൻപുട്ടുകൾ ജനറേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഔട്ട്പുട്ടുകൾ ഇവിടെ നൽകപ്പെടും അതിനാൽ ടെസ്റ്റ് പാറ്റേണുകൾ പ്രയോഗിക്കുന്നതിലും പ്രതികരണം വിലയിരുത്തുന്നതിലും ATE നിയന്ത്രണത്തിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ATE വളരെ ചെലവേറിയ ഉപകരണമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മൊത്തം നിർമ്മാണച്ചെലവിലെ ഒരു ഘടകം അത് ATEയുടെ ചെലവാണ് അതിനാൽ ഇത് കൂടുതൽ സാമ്പ്രദായിക സമീപനമാണ് എന്നാൽ ഇവിടെ ടെസ്റ്റ് ജനറേഷനും റെസ്പോൺസ് ഇവാലുവേഷനും ചിപ്പിനുള്ളിൽ തന്നെ ചെയ്യുന്നു അതിനാൽ ടെസ്റ്റ് സൃഷ്ടിക്കുന്നതിന് നമ്മൾ ഒരു എക്സ്റ്റേനൽ ടെസ്റ്റ് ജനറേറ്ററിനെ ആശ്രയിക്കുന്നില്ല അല്ലെങ്കിൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ചില എക്സ്റ്റേനൽATE ആയിരിക്കാം സ്വാഭാവികമായും ചിപ്പിൽ ഇത് ചെയ്യുന്നതിന് അധിക ഹാർഡ്വെയർ ആവശ്യമാണ് അതിനാൽ ചിപ്പുകൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള അധിക സൌകര്യം നമ്മൾ നടപ്പിലാക്കി എന്ന് കരുതുക അതുവഴി അത് സ്വയം പരീക്ഷിക്കാനാകുംബിൽട് ഇൻ സെല്ഫ് ടെസ്റ്റ് അതിനാൽ BIST പ്രവർത്തനം നിയന്ത്രിക്കാൻ കുറഞ്ഞത് 2 പിന്നുകൾ ആവശ്യമാണ് അതിനാൽ ടെസ്റ്റ് കൺട്രോൾ ആയ പിൻ 1ഉണ്ടാകും ആ പിൻ സജീവമാക്കിയാൽ ചിപ്പ് ടെസ്റ്റിംഗ് ആരംഭിക്കും അത് ബാഹ്യ ഇടപെടലില്ലാതെ ആന്തരികമായി മാത്രമേ നടക്കൂ ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ നല്ലതോ ചീത്തയോ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പിൻ ഉണ്ടാകും അത് ഞാൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് പറയും അതിനാൽ BIST സാധാരണയായി അതിൽ കൂടുതലൊന്നും പറയില്ല ഒന്നുകിൽ ചിപ്പ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അത് പറയും ഇപ്പോൾ എന്റെ ചിപ്പിന്റെ ഉൾഭാഗം ഇങ്ങനെയാണ് കാണപ്പെടുക മുമ്പ് നമ്മുടെ സർക്യൂട്ടുകൾ മാത്രമേ പരിശോധനയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് ജനറേറ്റർ ഉണ്ട് നമുക് ഒരു റെസ്പോൺസ് കോംപാക്റ്റർ ഉണ്ട്നമുക് ഇത് എന്തിനാണെന്നുള്ളതിലേക് കുറച്ച് കഴിഞ്ഞ് വരാം ബാഹ്യമായി ഞാൻ പറഞ്ഞതുപോലെ BIST പ്രവർത്തനം ആരംഭിക്കുന്നതിനോ സജീവമാക്കുന്നതിനോ ഒരു നിയന്ത്രണ സിഗ്നൽ ആവശ്യമാണ് കൂടാതെ പരിശോധനയുടെ ഫലം വിലയിരുത്തുന്നതിന് നമുക് ഒരു നിയന്ത്രണ സിഗ്നൽ ആവശ്യമാണ് നമുക്ക് എന്തുകൊണ്ട് BIST ആവശ്യമാണ് എന്താണ് ഗുണങ്ങൾ എന്ന് ഇപ്പോൾ നോക്കാം വിലയേറിയ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ഉപകരണം ആവശ്യമില്ലെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ച ആദ്യത്തേത് ഈ ATE വളരെ സങ്കീർണ്ണമായ ഉപകരണമാണെന്ന് നിങ്ങൾ കാണുന്നു ഇത് വലിയ ഉപകരണമാണ് ഇത് വളരെ നിയന്ത്രിത പരിതസ്ഥിതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിനാൽ നമുക്ക് ചിപ്പ് പരിശോധിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഞങ്ങൾ എടിഇയുടെ അടുത്തേക്ക് പോകണം അത് എടിഇയിൽ ഇടുക എടിഇ ടെസ്റ്റ് വെക്റ്ററുകൾ പ്രയോഗിക്കുകയും അത് പരീക്ഷിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചിപ്പിൽ BIST ഫീച്ചർ ഉണ്ടെങ്കിൽ ചിപ്പ് പരിശോധിക്കാൻ ATE ലേക്ക് പോകണമെന്നില്ല നിങ്ങളുടെ ഫീൽഡ് ആയ നിങ്ങളുടെ ലാബിൽ പോലും നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് അതിനാൽ ഫീൽഡ് ടെസ്റ്റിനായി ഉപയോഗിക്കാം ഡയഗനോസിസ് ഡയഗനോസിസ് എന്നാൽ നിങ്ങൾ ഏത് ചിപ്പ് മോശമാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നു എന്നാണ് ഡയഗനോസിസ് പരാജയത്തിന്റെ ഉറവിടം തിരിച്ചറിയലാണ് അതിനാൽ സാധാരണയായി ഒരു സിസ്റ്റത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ആദ്യമായി മെഷീൻ ഓണാക്കുമ്പോൾ ഒരു ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ കാണുന്നത് പോലെ ഒരു സോഫ്റ്റ്വെയർ ഡയഗ്നോസ്റ്റിക് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് അതിനാൽ ഇത് ചില പതിവ് പരിശോധനകൾ ചെയ്യുന്നു ഇത് മെമ്മറി മുതലായവ പരിശോധിക്കുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ഒരു കോഡ് ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു അതിനാൽ എന്താണ് അല്ലെങ്കിൽ ഏത് സബ് സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് തിരിച്ചറിയാൻ ആ കോഡ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ഡീകോഡ് ചെയ്യേണ്ടിവരും ഇപ്പോൾ BIST ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റുകൾക്ക് പകരമാകാം എന്നാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റുകൾ സാധാരണ സോഫ്റ്റ്വെയർ ടെസ്റ്റുകളാണ് പ്രശ്നം അവർ വളരെ അബ്സ്ട്രാക്ട് ആയ രീതിയിൽ ടെസ്റ്റുകൾ നടത്തുന്നു ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ ഫോൾട് കവറേജ് വളരെ കുറവാണ് ഡയഗ്നോസ്റ്റിക് റെസല്യൂഷനും വളരെ കുറവാണ് ചിലപ്പോൾ നിങ്ങളുടെ പിസിയുടെ മദർ ബോർഡിൽ ഒരു തകരാർ ഉണ്ടെന്ന് മാത്രമേ പറയൂ അതിനാൽ ഓരോ തവണയും ഒരു ഫീൽഡ് ഉണ്ടാകുന്നതിനുപകരം തകരാറിന്റെ ഉറവിടം കണ്ടെത്താൻ ഒരിടത്ത് പോകേണ്ടിവരും നിങ്ങളുടെ സ്വന്തം ചെറിയ ലാബിൽ അത് ചെയ്യാം ഇപ്പോൾ BIST ആർക്കിടെക്ചർ ഇതുപോലെ കാണപ്പെടുന്നു അതിനാൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്റെ സർക്യൂട്ട് പരിശോധനയിലാണ് അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ മുഴുവൻ ചിത്രവും തീർച്ചയായും ചിപ്പിനുള്ളിൽ പോകുന്ന ഒന്നാണ് എനിക്ക് ഒരു പാറ്റേൺ ജനറേറ്റർ ആവശ്യമാണ് അത് എന്റെ ടെസ്റ്റ് പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യും എനിക്ക് വളരെ നല്ല ഒരു ടെസ്റ്റ് ജനറേറ്റർ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും അതിന് വളരെ നല്ല ചില ചെറിയ ടെസ്റ്റ് പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും ഞാൻ അത് ചിപ്പിനുള്ളിലെ ഒരു റോമിൽ സൂക്ഷിക്കട്ടെ ഇത് സാധ്യമാണ് പക്ഷേ റോമിന്റെ ഓവർഹെഡ് വളരെ കൂടുതലായിരിക്കും ചില സർക്യൂട്ടുകൾക്ക് നിങ്ങൾക്ക് 1000 ടെസ്റ്റ് വെക്റ്ററുകൾ ആവശ്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം തീർച്ചയായും അതിന് നിങ്ങൾക്ക് 1000 വേർഡ്സ് ഉള്ള ഒരു റോം ആവശ്യമാണ് ഹാർഡ്വെയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റോമിന്റെ ആക്സസ് സമയം മന്ദഗതിയിലായിരിക്കും അതിനാൽ സാധാരണയായി ചെയ്യുന്നത് ഈ പാറ്റേൺ ജനറേറ്റർ ഒരുതരം ഹാർഡ്വെയർ ഘടനയാണ് അത് വളരെ വേഗത്തിൽ പ്രവർത്തിക്കാനും ചില പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യാനും കഴിയും അത് ടെസ്റ്റ്നായി ഉപയോഗിക്കും അതിനാൽ ഈ മൾട്ടിപ്ലക്സർ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഈ പ്രാഥമിക ഇൻപുട്ട് പോകേണ്ട സാധാരണ ഓപ്പറേഷൻ മോഡിലാണോ അതോ ഈ പാറ്റേൺ പോകേണ്ട ടെസ്റ്റ് മോഡിൽ ആണോ എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് അതുപോലെ ഇവിടെ സാധാരണ മോഡിൽ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് പ്രാഥമിക ഇൻപുട്ടായ PO യിലേക്ക് പോകും പക്ഷേ ടെസ്റ്റ് മോഡിൽ നിങ്ങൾക്ക് ചിപ്പിനുള്ളിൽ റെസ്പോൺസ് കോംപാക്റ്റർ ഉണ്ട് ഞാൻ ഇത് വിശദീകരിക്കാം ഞാൻ ഒരു സർക്യൂട്ടിൽ 1000 ടെസ്റ്റ് പാറ്റേണുകൾ പ്രയോഗിക്കുന്നു 10 ഔട്ട്പുട്ട് ലൈനുകൾ ഉണ്ട് അതിനാൽ ഞാൻ 1000 ബിറ്റ് ഇൻഫൊർമേഷനും 1000 ടെസ്റ്റ് വെക്റ്ററുകൾക്ക് അനുയോജ്യമായ ഈ 10 ഔട്ട്പുട്ട് ലൈനുകളും ജനറേറ്റ് ചെയ്യും അതിനാൽ എനിക്ക് എത്ര 1000 ഉണ്ടായിരിക്കും ഓരോന്നിനും അത്തരം 10 ലൈൻസ് ഉണ്ട് അതിനാൽ ഇത് 10 കിലോബൈറ്റ് ഡാറ്റ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് 100 കിലോബൈറ്റ് ഡാറ്റയുണ്ട് ക്ഷമിക്കണം 10 10 ലൈൻസ് 1000 ആയി അതെ 10 കിലോബൈറ്റ് ഡാറ്റ അതിനാൽ ഈ 10 കിലോബൈറ്റ് റെസ്പോൺസ് ഞാൻ വീണ്ടും ഒരു റോമിൽ സ്റ്റോർ ചെയ്യും ടെസ്റ്റ് നടക്കുമ്പോൾ ഞാൻ അവ ഓരോന്നായി താരതമ്യം ചെയ്യും എന്നാൽ നിങ്ങൾക്ക് അത് തീർച്ചയായും നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഇവിടെ വീണ്ടും പറയും എന്നാൽ നിങ്ങളുടെ ഓവർഹെഡ് വളരെയധികം ആകും നിങ്ങളുടെ ഇൻപുട്ട് വെക്റ്റർ സ്റ്റോർ ചെയ്യുന്നതിന് നിങ്ങളുടെ ഔട്ട്പുട്ട് റെസ്പോൺസ് സ്റ്റോർ ചെയ്യുന്നതിന് നിങ്ങൾ ഒരു റോം ഉപയോഗിക്കുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ശേഷിയുള്ള വലിയ വലിപ്പമുള്ള റോം ആവശ്യമാണ് കാരണം ആധുനിക സർക്യൂട്ടുകൾക്ക് ദശലക്ഷക്കണക്കിന് ടെസ്റ്റ് വെക്ടർസ് ആവശ്യമായി വന്നേക്കാം സർക്യൂട്ടിലും 100 ഔട്ട്പുട്ടുകൾ ഉണ്ടാകാം അതിനാൽ നിങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട ടെസ്റ്റ് ഡാറ്റയുടെ അളവ് വളരെ വലുതായിരിക്കും അതിനാൽ ഒരു റെസ്പോൺസ് കോംപാക്റ്റർ നിങ്ങൾക്ക് ആവശ്യമാണ് അത് ടെസ്റ്റ് ഡാറ്റയുടെ വോളിയം താരതമ്യേന ചെറിയ വോള്യത്തിലേക്ക് കുറയ്ക്കും ഒപ്പം കോംപാക്ഷന് ശേഷം ആ ചെറിയ വാല്യൂവിനായുള്ള ശരിയായ റെസ്പോൺസ് സ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചെറിയ റോം ഉപയോഗിക്കാം അതിനാൽ കോംപാക്ഷന് ശേഷം നിങ്ങൾ കോംപാക്റ്റ് ചെയ്ത റെസ്പോൺസുമായി റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അനുബന്ധ ഗോൾഡൻ വാല്യൂവുമായി താരതമ്യം ചെയ്യുന്നു അത് മാച്ച് ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് വിജയിച്ചു അത് നല്ലതാണ് അത് പരാജയപ്പെട്ടാൽ അത് മോശമാണെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ സർക്യൂട്ടിൽ PI യിൽ നിന്ന് മൾട്ടിപ്ലക്സറിലേക്കുള്ള കണക്ഷൻ പോലെ BIST പരിശോധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് സർക്യൂട്ടിലേക്കുള്ള പാറ്റേൺ ജനറേഷനും കോംപാക്റ്ററിലേക്കുള്ള സർക്യൂട്ടും മാത്രമാണ് പരിശോധിക്കുന്നത് എന്നാൽ ഈ PI കണക്ഷൻ PO കണക്ഷൻ ഇവിടെ എന്തെങ്കിലും തകരാർ ഉണ്ടെങ്കിൽ ഈ പാതകൾ പരീക്ഷിക്കില്ല അതിനാൽ ഇത് ഓർമ്മിക്കേണ്ടതാണ് റാൻഡം പാറ്റേൺ ടെസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു ആശയമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതും കണ്ടതുംനമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട് ഒരു കൂട്ടം ഫോൾട്സ് ഉണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു നല്ല ചെറിയ ഫോൾട്സ് കണ്ടെത്താൻ ശ്രമിക്കാം ടെസ്റ്റ് ജനറേഷൻ സങ്കീർണ്ണമാണെന്നും വലിയ സർക്യൂട്ടുകൾക്ക് സമയമെടുക്കുമെന്നും നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ടെസ്റ്റ് പാറ്റേൺ ജനറേറ്റർ ഉപയോഗിക്കുന്നില്ലപകരം ചില റാൻഡം പാറ്റേണുകൾ നമുക്ക് ഉപയോഗിക്കാം റാൻഡം പാറ്റേണുകൾ അർത്ഥമാക്കുന്നത് അവ തികച്ചും ക്രമരഹിതമായ പാറ്റേണുകളായിരിക്കും പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ജനറേറ്റ് ചെയ്യുന്നത് സ്യുഡോ റാൻഡം പാറ്റേണുകളാണ് സ്യൂഡോ റാൻഡം പാറ്റേൺ എന്നാൽ കൃത്യസമയത്ത് ആവർത്തിക്കാവുന്ന പാറ്റേണുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് കൂടാതെ ഈ സ്യൂഡോ റാൻഡം പാറ്റേണുകൾ സാധാരണയായി ഒരു ഹാർഡ്വെയർ ഘടന ഉപയോഗിച്ചാണ് ജനറേറ്റുചെയ്യുന്നത് ഇതിനെ ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ LFSR എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് ഒരു LFSR ഉപയോഗിക്കാം ഇത് വളരെ ലളിതമായ ഒരു ഹാർഡ്വെയർ ഘടനയാണ് അല്ലെങ്കിൽ നമുക്ക് 1000 റാൻഡം പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നും ഫോൾട് സിമുലേഷൻ ഉപയോഗിക്കാമെന്നും പറയുകയാണെങ്കിൽ ആ 1000 ടെസ്റ്റ് പാറ്റേണുകളും റാൻഡം പാറ്റേണുകളും ഉപയോഗിച്ച് എന്താണ് ഫോൾട് കവറേജ് ഫോൾട് ശതമാനം എങ്ങനെ കണ്ടെത്താം എന്നിവ നമുക്ക് കണ്ടെത്താനാകും അതിനാൽ നമ്മുടെ ഫോൾട് കവറേജ് സ്വീകാര്യമായ വാല്യൂവിൽ എത്തിയാൽ ഇത്രയും പാറ്റേണുകൾ ഉപയോഗിക്കാം എന്ന് നമുക്ക് പറയാം ഉദാഹരണത്തിന് 1 ദശലക്ഷം ടെസ്റ്റ് പാറ്റേണുകൾ പ്രയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിലഷണീയമായ ലെവലിൽ എത്തിയിട്ടുള്ളൂ എന്ന് കരുതുക ഒരു കൺവെൻഷനൽ ടെസ്റ്റ് ജനറേഷനായി ഈ 1 ദശലക്ഷം വളരെ വലിയ സംഖ്യയാണെന്ന് നിങ്ങൾ കരുതുന്നു കാരണം 1 ദശലക്ഷം പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് ATE ൽ ഈ പാറ്റേൺ ATE മെമ്മറിയിൽ ലോഡ് ചെയ്യേണ്ടിവരും എന്നാൽ ഇവിടെ എനിക്ക് ഒരു LFSR ഉണ്ട് അത് 1 ദശലക്ഷം ക്ലോക്ക് സൈക്കിളുകൾക്കായി പ്രവർത്തിക്കുന്നു എവിടെയും ശരിയായി സ്റ്റോർ ചെയ്യുന്നൊന്നുമില്ല ഞാൻ 1 ജിഗാഹെർട്സിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 1 ദശലക്ഷം പാറ്റേണുകൾ ശരിയായി പ്രവർത്തിക്കാൻ 1 മില്ലിസെക്കൻഡ് സമയം മാത്രമേ എടുക്കൂ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇവിടെ സമയവും അത്ര പ്രശ്നമല്ല അതിനാൽ നിങ്ങൾ ഇതും ഓർക്കേണ്ടതുണ്ട് അതിനാൽ ടെസ്റ്റ് ദൈർഘ്യം വലുതായിരിക്കാം പക്ഷേ ടെസ്റ്റ് ജനറേഷൻ വളരെ നിസ്സാരമാണ് ഒന്നുകിൽ നമുക്ക് ആവശ്യമുള്ള ലെവലിൽ ഫോൾട്ട് കവറേജ് എത്തുന്നതുവരെ തുടരാം എന്നാൽ ചിലപ്പോൾ ഇത് BIST ന് ബാധകമല്ല ഒരു ഘട്ടത്തിനപ്പുറം നമുക്ക് ഫോൾട്കൾ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും തുടർന്ന് ശേഷിക്കുന്ന ഫോൾട്കൾക്കായി നിങ്ങൾക്ക് ഒരു ATPG ടൂളിലേക്ക് മാറാം എന്നാൽ BIST ആപ്ലിക്കേഷനായി നമ്മൾ ഇത് ചെയ്യുന്നില്ല ഞങ്ങൾ ചെയ്യുന്നു സാധാരണയായി നമ്മൾ റാൻഡം പാറ്റേൺ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അതിനാൽ സാധാരണ സർക്യൂട്ടുകളുടെ സ്വഭാവം ഇതുപോലെയാണ് ഞാൻ പോയി ചില നമ്പർ സ്യൂഡോ റാൻഡം ടെസ്റ്റ് പാറ്റേണുകൾ പ്രയോഗിക്കുമ്പോൾ ഇവ അതേ നമ്പർ ടെസ്റ്റ് വെക്റ്ററുകളും സ്യൂഡോ റാൻഡം പാറ്റേണുകളും പ്രയോഗിക്കുന്നതുമാണ് അതിനാൽ ഫോൾട്ട് സിമുലേഷനിലൂടെ സാധാരണ കർവ് ഉള്ള ഫോൾട് കവറേജ് ഞാൻ തുടർച്ചയായി നിരീക്ഷിക്കുന്നു ഇത് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷേ പോയിന്റിനപ്പുറം അത് ഇപ്പോൾ ഒരു താഴ്ന്ന നിലയിലായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ പോയിന്റ് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഇത് എന്റെ ഒപ്റ്റിമൽ നമ്പർ ടെസ്റ്റ് വെക്റ്ററുകളാണെന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ ഈ നമ്പർ ഓരോ സർക്യൂട്ടിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ തന്നിരിക്കുന്ന ഒരു സർക്യൂട്ടിനായി ഇത് ഫോൾട് സിമുലേഷൻ ഉപയോഗിച്ച് നമ്മൾ വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ LFSR എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഇത് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിനെ അടിസ്ഥാനമാക്കിയുള്ള ഹാർഡ്വെയർ സർക്യൂട്ടാണ് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും ഉണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ലീനിയർ ഫീഡ്ബാക്ക് ആണ് ഇവിടെ നമ്മൾ ഗണിതശാസ്ത്ര വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ഫീഡ് സർക്യൂട്ട് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ഉൾക്കൊള്ളുന്നു കൂടാതെ XOR ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കാനാകും അതിനാലാണ് ഇതിനെ ലീനിയർ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത് കൂടാതെ LFSR റാൻഡം പാറ്റേണുകളുടെ നല്ല ഉറവിടമാണെന്ന് കണ്ടെത്തി കൂടാതെ പല ആപ്ലിക്കേഷനുകളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് റാൻഡം നമ്പർ ജനറേഷൻ തീർച്ചയായും ഒരു അപ്ലിക്കേഷൻ ആണ് എന്നാൽ നിങ്ങൾ ഹാർഡ് ഡിസ്കുകളിൽ കുറച്ച് ഡാറ്റ സംഭരിക്കുമ്പോൾ എല്ലായിടത്തും എറർസ് ഉണ്ടാകാം എറർസ് പരിശോധിക്കുന്നതിനും ആശയവിനിമയത്തിനും ഉപയോഗിക്കുന്ന സൈക്ലിക് റിഡൻഡൻസി ചെക്കിങ്ങിനെ ക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും എറർസ് കണ്ടെത്തുന്നതിനുള്ള വളരെ സാധാരണവും ജനപ്രിയവുമായ ഒരു മാർഗമാണ് CRC ഇവിടെയും ചില തരത്തിലുള്ള CRC ചെക്ക്സം അല്ലെങ്കിൽ സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യാൻ LFSR ഉപയോഗിക്കുന്നു റെസ്പോൺസിന്റെ കോംപാക്ഷനും നമുക്ക് ഒരു LFSR ഉപയോഗിക്കാം ഇത് പിന്നീട് കാണാം അപ്പോൾ ഒരു LFSR എങ്ങനെ കാണപ്പെടുന്നു ഒരു LFSR ന് 2 ഇതര ഘടനകളുണ്ട് ടൈപ്പ് ഒന്ന് അല്ലെങ്കിൽ ടൈപ്പ് 2 ടൈപ്പ് വൺ എന്നത് ക്ലാസിക്കൽ ഘടനയാണ് ഫീഡ്ബാക്ക് ഇത് XOR ഗേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ കാണുന്നത് D1 D2 D3 D4 അല്ലെങ്കിൽ ഇവ ഷിഫ്റ്റ് രജിസ്റ്ററായി കണക്റ്റുചെയ്തിരിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ആണ് ഇവ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് അതിനാൽ അവസാനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഈ XOR ന്റെ ഇൻപുട്ടിലേക്ക് തിരികെ നൽകുന്നു കൂടാതെ ഇവിടെയുള്ള D1 പോലെയുള്ള മറ്റ് ചില ഔട്ട്പുട്ടുകളും XOR ന്റെ ഇൻപുട്ടായി നൽകപ്പെടുന്നു അതിനാൽ ഇവിടെ എനിക്ക് ഒരു ചോയ്സ് ഉണ്ട് എനിക്ക് അവയെല്ലാം ഒരുമിച്ച് D2 D2 D3 എന്നിവയിൽ നിന്ന് എടുക്കാം ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ഇൻപുട്ടായി നൽകുന്നു അതിനാൽ ഈ LFSR ന് ഒരു എക്സ്റ്റേനൽ ഇൻപുട്ട് ഇല്ലെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ അത് ഇനിഷ്യൽ വാല്യൂ ലോഡുചെയ്ത് ക്ലോക്ക് അപ്ലൈ ചെയ്താൽ അത് ഓട്ടോണോമിസ് രീതിയിൽ പ്രവർത്തിക്കുകയും തുടർച്ചയായി ചില പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അതിനാൽ ഡാറ്റാ കോംപാക്ഷനായി സാധാരണയായി ഉപയോഗിക്കുന്ന LFSR ന്റെ ഒരു ഇതര ഘടനയുണ്ട് അവിടെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ XOR ഉപയോഗിക്കുന്നതിനുപകരം ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്നു ഞങ്ങൾ ഫീഡ്ബാക്ക് നേരിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ അതിനിടയിൽ എവിടെയെങ്കിലും ഈ XOR ഗേറ്റുകൾ ഉപയോഗിക്കാം നിങ്ങൾ XOR ഗേറ്റ് ഉപയോഗിക്കുമ്പോഴെല്ലാം ഈ ലൈനിൽ നിന്നുള്ള ഇൻപുട്ടുകളിൽ ഒന്ന് കൂടി എടുക്കും അതിനാൽ ഇവിടെ ഒരു XOR ഗേറ്റ് ഉണ്ടാകാം അതിനാൽ ഇവിടെ നിന്ന് ഒരു ഇൻപുട്ട് വരും ഇവിടെ നിന്ന് ഒരു ഇൻപുട്ട് ഇതുപോലെ അതിനാൽ ഇതിനെ ടൈപ്പ് 1 എൽഎഫ്എസ്ആർ ടൈപ്പ് 2 എൽഎഫ്എസ്ആർ എന്ന് വിളിക്കുന്നു ഒരു LFSR ഉപയോഗിച്ച് ഒരു പാറ്റേൺ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഉദാഹരണം നമുക്ക് എടുക്കാം നമുക്ക് ടൈപ്പ് 1 എൽഎഫ്എസ്ആർ ഇതുപോലെ എടുക്കാം അവിടെ എനിക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ 4 ബിറ്റ് എൽഎഫ്എസ്ആർ ഫീഡ്ബാക്ക് കണക്ഷൻ ഇതുപോലെയാണ് ഡി 4 ൽ നിന്ന് ഡി 1 ൽ നിന്ന് എക്സോറിന്റെ ഔട്ട്പുട്ട് ഡി 1 ലേക്ക് ഫീഡ് ചെയ്യുന്നു ഇപ്പോൾ ഒരു LFSR ന്റെ സ്വഭാവം നിങ്ങൾ ഫീഡ്ബാക്ക് കണക്ഷൻ എടുക്കുന്ന പോയിന്റുകളെ വളരെയധികം ആശ്രയിച്ചിരിക്കും ഇപ്പോൾ ഈ ഫീഡ്ബാക്ക് കണക്ഷൻ ഈ LFSR ന്റെ ഘടനയാണ് കാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കൊണ്ട് നിർവചിക്കാം LFSR നുള്ള പ്രത്യേകം സവിശേഷത ഈ പോളിനോമിയൽ പ്രതിനിധീകരിക്കുന്നു സവിശേഷതയാണ് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ x ലേക്കുള്ള പവർ 4 x എന്നത് ഒരു പരാമീറ്ററാണ് x ലേക്ക് പവർ 4 നെ പ്രതിനിധീകരിക്കുന്നു x ലേക്ക് 4 x ലേക്ക് 3 x ലേക്ക് 2 x ലേക്ക് 1 x ൽ ഇവിടെ നമുക്ക് x പവർ 4 ലേയ്ക്കും x പവർ 1 ലേയ്ക്കും ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ 2 ടേംസ് ഉള്ളത് 1 ഉം ഉണ്ടായിരിക്കും കാരണം നിങ്ങൾ x പവർ 0 ലേക്ക് കണക്ട് ചെയ്യുന്നു പകരം ഇതിൽ ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ഉണ്ട് x പവർ 1 ന് പകരം അത് x പവർ 2 ലേക്ക് xആയിരിക്കണം x സ്ക്വർ ഇവിടെ ഒരു കണക്ഷൻ ഫോം ഉണ്ടെങ്കിൽ അത് x ക്യൂബ് ആയിരിക്കും അതിനാൽ നിങ്ങളുടെ ടാപ്പിംഗ് പോയിന്റുകളെ ആശ്രയിച്ച് നിങ്ങൾ എക്സ്ക്ലൂസീവ് or ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നിടത്ത് നിന്ന് നിങ്ങളുടെ കാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വ്യത്യാസപ്പെടും ഇതിനെ കാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ D1 ഇവിടെ ജനറേറ്റ് ചെയ്ത പാറ്റേണുകൾ നമുക്ക് നോക്കാം D4 D3 D2 D 1 നമ്മൾ 1 0 0 0 1 0 0 0 ഉപയോഗിച്ച് LFSR ഇനിഷ്യലൈസ് ചെയ്യുകയാണെന്ന് കരുതുക അതിനാൽ ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകും അതിൽ ഒരു പുതിയ ബിറ്റ് ലഭിക്കും D4 D1 എന്നിവയുടെ XOR അതിനാൽ ഇത് D1 ആണ് ഇത് D4 നിങ്ങൾ പോയി ഇത് പോലെ D4 ഉം D1 ഉം 0 ഉം 1 ഉം മാത്രം ഷിഫ്റ്റ് ചെയ്യുക അതിനാൽ അടുത്ത തവണ ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 D1 ൽ ചെയ്യും അടുത്ത 1 ലും 0 ലും നിങ്ങൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 ഷിഫ്റ്റ് ചെയ്യും അതിനാൽ 1 1 1 ഉം 0 ഉം വീണ്ടും 1 1 എന്നിവ ഷിഫ്റ്റ് ചെയ്യും 1 1 1 വീണ്ടും 1 0 വീണ്ടും 1 ഷിഫ്റ്റ് ചെയ്യും എന്നാൽ ഇപ്പോൾ 1 ഉം 1 0 ഉം XOR ചെയ്യുമ്പോൾ 0 ആണ് അതിനാൽ ഇപ്പോൾ 0 ഷിഫ്റ്റ് ചെയ്യും 1ഉം 0 ഉംവീണ്ടും 1 ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യും നിങ്ങൾ ക്ലോക്കു അപ്ലൈ ചെയ്യുമ്പോൾ ചില പാറ്റേണുകൾ ജനറേറ്റുചെയ്തിരിക്കുന്നതായി നിങ്ങൾ കാണും നിശ്ചിത നമ്പറിന് ശേഷം ഇത് 1 0 0 0 ആവർത്തിക്കുന്നു അതിനാൽ വീണ്ടും 1 0 0 ന് ശേഷം ഇതേ പാറ്റേൺ വീണ്ടും വരും അതിനാൽ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പാറ്റേണുകൾ ജനറേറ്റ് ചെയ്തത് കൌണ്ട് ചെയ്യാം ആവർത്തിക്കുന്നതിന് മുമ്പ് 15 പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യുന്നു അതിനാൽ ഏത് പാറ്റേണാണ് ഇവിടെ നഷ്ടമായതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എല്ലാ 0 പാറ്റേണും കാണുന്നില്ല നിങ്ങൾ ഈ LFSR എല്ലാ 0 പാറ്റേണിലും ലോഡ് ചെയ്തുകഴിഞ്ഞാൽ അത് എല്ലാ 0 സ്റ്റേറ്റിലും നിലനിൽക്കും കാരണം XOR ന്റെ 0 0 0 ആകും 0 ഷിഫ്റ്റ് ചെയ്യും അതിനാൽ റൈറ്റ് ഷിഫ്റ്റ് 0 വരുന്നു അതിനാൽ അത് 0 ആയി തുടരും ഒരു ഡാറ്റാ ജനറേഷൻ ആപ്ലിക്കേഷനായി LFSR ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം അത് ഒരിക്കലും 0 ഉപയോഗിച്ച് ലോഡുചെയ്യരുത് ഇത് വളരെ നല്ല തരത്തിലുള്ള LFSR ആണ് കാരണം 0 ഒഴികെയുള്ള മറ്റെല്ലാ 15 പാറ്റേണുകളും ജനറേറ്റ് ചെയ്യാൻ കഴിയും 8 1 0 0 0 എന്നസംഖ്യകളുടെ ഡെസിമൽ ഇക്വിവലെന്റ്ഡെസിമൽ ഇക്വിവലെന്റ് 8 1 3 7 15 14 12 10 5 ആണ് തുടർന്ന് 11 6 എന്നിങ്ങനെ ഈ സംഖ്യകൾ റാൻഡം ആയി കാണപ്പെടുന്നു ഇപ്പോൾ റാൻഡമ്നെസ്സിനായി ചില സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ ഉണ്ട് അതിനാൽ റാൻഡമ്നെസ്സ്മായി ബന്ധപ്പെട്ട് LFSR ജനറേറ്റ് ചെയ്ത പാറ്റേണുകൾ ആളുകൾ വിലയിരുത്തി മറ്റ് ടെസ്റ്റുകൾ തൃപ്തികരമായി വിജയിക്കാത്ത ഒരു ടെസ്റ്റ് ഒഴികെ റാൻഡമ്നെസ്സ് ഗുണനിലവാരം വളരെ മികച്ചതാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് സീരിയൽ ബിറ്റ് പാറ്റേൺ വേണമെങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നു ഇതും റാൻഡമാണ് 0 1 1 1 കൂടാതെ 0 1 0 1 1ഉം 0 0 1 1 0 1 ഇതും റാൻഡം പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഒന്നുകിൽ റാൻഡമായി ഒരു സമാന്തര പാറ്റേൺ എടുക്കാം അല്ലെങ്കിൽ സീരിയലായി നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് മാത്രം റാൻഡമ്നെസ്സ് തൃപ്തികരമല്ല കാരണം അടിസ്ഥാനം ഘടന ഒരു ഷിഫ്റ്റ് രജിസ്റ്ററാണ് ഡയഗണലായി ഒരു പാറ്റേൺ 0 0 0 ൦ ഉണ്ട് കാണും ഇവ 1 1 1 1 ആയി ഷിഫ്റ്റ് ചെയ്യുന്നു ഇത് റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അതിനാൽ ഇതിനെ വ്യത്യസ്ത ബിറ്റുകൾക്കിടയിൽ ക്രോസ് കോറിലേഷൻ എന്ന് വിളിക്കുന്നു ഇത് പരാജയപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഇപ്പോൾ LFSR ന്റെ ചില നിർവചനങ്ങൾ ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ 4 ബിറ്റ് LFSR എടുത്തിട്ടുണ്ട് 15 പാറ്റേണുകൾ ജനറേറ്റ് ചെയ്തതായി നമ്മൾ കണ്ടു അതിനാൽ പൊതുവായി ഒരു n ബിറ്റ് അല്ലെങ്കിൽ n സ്റ്റേജ് LFSR ന് നമുക്ക് പരമാവധി 2 പവർ n മൈനസ് 1 പാറ്റേൺ ജനറേറ്റ് ചെയ്യാൻ കഴിയും എല്ലാ 0 പാറ്റേണും ഒഴികെയുള്ള എല്ലാ പാറ്റേണുകളും ജനറേറ്റുചെയ്യുന്ന ഒരു LFSR സൃഷ്ടിക്കുന്ന അത്തരം ഒരു ശ്രേണി അതിനെ മാക്സിമം ലെങ്ത് സീക്വൻസ് അല്ലെങ്കിൽ എം സീക്വൻസ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ LFSR ൽ ഉള്ളത് പോലെ കാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ടാപ്പിംഗ് പോയിന്റുകൾ അവർ കാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ നിർവചിക്കുന്നു അതിനാൽ ഒരു എം സീക്വൻസ് സൃഷ്ടിക്കുന്ന കാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇത് ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽആയതിനാൽ 15 പാറ്റേണുകൾ ജനറേറ്റ് ചെയ്തു അതിനാൽ ഇത് മറ്റൊരു നിർവചനം അർത്ഥമാക്കുന്നത് ഇറെഡൂസിബിൾ പോളിനോമിയൽ എന്നത് ഫാക്ടർ ചെയ്യാൻ കഴിയാത്ത ഒരു പോളിനോമിയൽ ആണ് ഇപ്പോൾ പ്രിമിറ്റീവ് പോളിനോമിയൽ ഒരു തരം ഇറെഡൂസിബിൾ പോളിനോമിയലാണ് അതിനാൽ ഇത്തരത്തിലുള്ള പ്രിമിറ്റീവ് പോളിനോമിയലുകളെ തിരിച്ചറിയാനുള്ള വഴികളുണ്ട് ഈ പ്രിമിറ്റീവ് പോളിനോമിയലുകളുടെ സമഗ്രമായ പട്ടിക വിവിധ സ്ഥലങ്ങളിൽ ലഭ്യമാണ് അതിനാൽ ഞാൻ കുറച്ച് കാണിക്കുന്നു ഈ സംഖ്യകൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നു അതായത് LFSR ലെ സ്റ്റേജ്കളുടെ എണ്ണം ഇത് നിങ്ങൾ ടാപ്പ് എടുക്കുന്നിടത്ത് നിന്നുള്ള ഒരു കോഡിംഗ് ആണ് 3 1 0 എന്നാൽ നിങ്ങൾ തീർച്ചയായും ടാപ്പ് എടുക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അവസാന സ്റ്റേജ് 3 മുതൽ 1 0 വരെ ഉണ്ടാകും അതിനാൽ 4 ന് പോളിനോമിയൽ x ക്യൂബ് പ്ലസ് x പ്ലസ് 1 ആയിരിക്കും x 4 x പ്ലസ് 1 സമാനമായി 16 ഈ 32 ഈ 64 നിങ്ങൾ 32 ബിറ്റ് LFSR ഇതുപോലെ ഒരു പ്രിമിറ്റീവ് പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇത്രയധികം ടാപ്പിംഗ് പോയിന്റുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് 2 പവർ 32 മൈനസ് 1 പാറ്റേൺ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്യൂട്ട് ഉണ്ടായിരിക്കാം അതായത് 4 ബില്യൺ പാറ്റേണുകൾ 4 ബില്യൺ റാൻഡം പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ സൌകര്യപ്രദമായ ഒരു സർക്യൂട്ട് ഞങ്ങൾക്കുണ്ട് അതിനാൽ ഇത് ഒരു വലിയ നേട്ടമാണ് അതിനാൽ ഈ m സീക്വൻസുകൾക്ക് രസകരമായ ചില ഗുണങ്ങളുമുണ്ട് അതായത്അത് ആവർത്തിക്കുന്നതിന് മുമ്പുള്ള കാലയളവ് 2 പവർ n മൈനസ് 1 ആണ് അതായത് a p പ്ലസ് i എന്ന ബിറ്റ് a i ന് തുല്യമായിരിക്കും p ന് തുല്യം n മൈനസ് 1 ന് തുല്യമായിരിക്കും അത് p ന് ശേഷം ആവർത്തിക്കുന്നു ഏതെങ്കിലും 0 അല്ലാത്ത സ്റ്റേറ്റിൽ നിന്ന് ആരംഭിച്ച് ഇത് ആവർത്തിക്കുന്നതിന് മുമ്പ് LFSR മറ്റെല്ലാ 2 പവർ n മൈനസ് 1 സ്റ്റേറ്റിലൂടെയും പോകും നമ്പർ പൂജ്യങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ഏതെങ്കിലും ബിറ്റുകളുടെ ഔട്ട്പുട്ട് കോളം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പവർ n പൂജ്യങ്ങളുടെ എണ്ണവും ഒന്നുകളുടെ എണ്ണവും തുല്യമായ ഒരു സാധാരണ ട്രൂട്ട് ടേബിൾ കാണാം ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ 0 പാറ്റേണും ഇല്ല അതിനാൽ ഇപ്പോൾ പൂജ്യങ്ങൾ 1 ൽ കുറവായിരിക്കുമോ അതിനാൽ കൂടാതെ നിലവിലെ സന്ദർഭത്തിൽ1 ന്റെ എണ്ണം 0 യുടെ എണ്ണത്തേക്കാൾ 1 കൂടുതലാണ് വളരെ പ്രധാനമല്ലാത്ത മറ്റ് ചില ഗുണങ്ങളും ഇവിടെയുണ്ട്

നിങ്ങൾ ജനറേറ്റ് ചെയ്ത ബിറ്റുകളുടെ ക്രമത്തിൽ n വലുപ്പമുള്ള ഒരു വിൻഡോ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ ബൈനറി പാറ്റേണുകളും ഒരു കൃത്യമായി പീരിയഡിൽ കാണപ്പെടും വിഡ്ത് 4 ന്റെ വിൻഡോ സ്ലൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പോലെകിട്ടും 0 1 1 1 പിന്നെ 1 1 1 1 പിന്നെ 1 1 1 0 1 1 0 1 1 0 1 0 അതിനാൽ ഇവ കൃത്യമായി ഒരു തവണയും അതുല്യമായും ദൃശ്യമാകും ഇപ്പോൾ തീർച്ചയായും അത് റൺ ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ നമുക്ക് അത് ആവശ്യമില്ല ഇപ്പോൾ m സീക്വൻസിന്റെ റാൻഡമ്നെസ്സ് പ്രോപ്പർട്ടികൾ ഇവിടെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒന്നാണ് കാരണം m സീക്വൻസുകൾക്ക് വളരെ നല്ല സ്യുഡോ റാൻഡമ്നെസ്സ് പ്രോപ്പർട്ടികൾ ഉണ്ട് ഓട്ടോ കോറിലേഷൻ ക്രോസ് കോറിലേഷൻ 0 ആണ് എന്നാൽ 2 തുടർച്ചയായ ഔട്ട്പുട്ട് ബിറ്റുകൾ തമ്മിലുള്ള ക്രോസ് കോറിലേഷൻ ഷിഫ്റ്റ് രജിസ്റ്റർ കണക്ഷൻ കാരണം ഞങ്ങൾ പറഞ്ഞതുപോലെ മോശമാണ് അതിനാൽ BIST പോലുള്ള ഒരു സാധാരണ ടെസ്റ്റ് പരിതസ്ഥിതിയിൽ നമുക്ക് ആവശ്യമുള്ളത്ര പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും എനിക്ക് 1 ബില്യൺ പാറ്റേണുകൾ ആവശ്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ 1 ജിഗാഹെർട്സ് ക്ലോക്ക് ഉപയോഗിച്ച് എനിക്ക് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ 1 സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ നല്ല കാര്യം മാക്സിമം ക്ലോക്ക് സ്പീഡ് പരിശോധിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് ഇതിനെ സ്പീഡ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു ഇവിടെ ചില ഫോൾട്കൾ ഉണ്ടാകുന്നു സർക്യൂട്ടിലെ ഡിലെ ക്രിട്ടിക്കൽ ടൈമിങ്സും അവ കണ്ടെത്തും സ്കാൻ ഡിസൈനുകളിൽ നമ്മൾ പലപ്പോഴും ഇത്തരം ഫോൾട്കൾ കണ്ടെത്താറില്ല അതിനാൽ ഇതോടെ നമ്മൾ ഈ ലെക്ചറിന്റെ അവസാനത്തിൽ എത്തി അടുത്ത ലെക്ചറിൽ നമ്മൾ BIST ന്റെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കും അതിനാൽ ടെസ്റ്റ് ജനറേഷൻ ഭാഗം നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ റെസ്പോൺസ് ലഭിച്ച ശേഷം ആ ഭാഗം എങ്ങനെ കോംപാക്ട് ചെയ്യാമെന്നും താരതമ്യം ചെയ്യാമെന്നും അടുത്ത ലെക്ചറിൽ കാണാം